ഹലോ സെക്യുർ സിസ്റ്റം എഞ്ചിനീയറിംഗ് കോഴ്സിലെ ഈ ക്ലാസിലേക്കു സ്വാഗതം മുമ്പത്തെ ക്ലാസിൽ ഞങ്ങൾ മൈക്രോ ആർക്കിടെക്ചർ attck ന്റെ വിശദാംശങ്ങൾ കണ്ടു cache covert ചാനലുകൾ പരിശോധിച്ചു Cache covert ചാനലുകളെക്കുറിച്ചുള്ള ഒരു പ്രധാന വശം നമ്മൾക്കു 2 പ്രോസസ്സുകളുണ്ട് പ്രോസസ്സ് A പ്രോസസ് Bഇവ രണ്ടും ഒരേ കാഷെ മെമ്മറി പങ്കിടുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും മൈക്രോപ്രൊസസ്സറും വാഗ്ദാനം ചെയ്യുന്ന എല്ലാ സുരക്ഷാ വശങ്ങളും വകവയ്ക്കാതെ പ്രോസസ്സ് A യും പ്രോസസ് B യും പരസ്പരം യോജിക്കുന്നു അതിനാൽ ഒരു പ്രക്രിയയിൽ നിന്നുള്ള ഡാറ്റയും വിവരങ്ങളും മറ്റ് പ്രക്രിയയിലേക്ക് കൈമാറുന്നു ഇപ്പോൾ രഹസ്യ ചാനലിലൂടെയുള്ള ഈ ആശയവിനിമയം പ്രധാനമായും പ്രോസസ് A പ്രോസസ് B എന്നിവയ്ക്കിടയിലുള്ള Cache covert channel മൂലമാണ് അതിനാൽ ഈ പ്രത്യേക ക്ലാസിൽ കാഷെ ടൈമിംഗ് ആക്രമണങ്ങളുടെ മറ്റൊരു രൂപമായ ഫ്ലഷ് റീലോഡ്FlushReload എന്നറിയപ്പെടുന്ന രീതിയെ കുറിച്ചു നോക്കുന്നു ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതംസ് പോലുള്ള ആപ്ലിക്കേഷനുകൾ ടാർഗെറ്റുചെയ്യുകയും കാഷെ മെമ്മറിയിലൂടെ രഹസ്യ കീകൾ അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ മോഷ്ടിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു ഫ്ലഷ് റീലോഡ് attack എന്താണെന്നു മനസിലാക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം കോപ്പി ഓൺ റൈറ്റ് എന്താണെന്നു മനസിലാക്കേണ്ടതുണ്ട് ഇത് നമ്മളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് തിരികെ കൊണ്ടുപോകും അവിടെ ഫോർക്ക് സിസ്റ്റം കോളിന്റെ എക്സിക്യൂഷൻ നോക്കും സാധാരണ ഫോർക്ക് സിസ്റ്റം കോൾ ഇതുപോലെയായിരിക്കും user പ്രോസസ്സുകൾ ഉപയോഗിക്കുന്ന fork സിസ്റ്റം കോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ invoke ചെയ്യുകയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ചൈൽഡ് പ്രോസസ്സ് സൃഷ്ടിക്കുകയും ചെയ്യും fork സിസ്റ്റം കോൾ വ്യത്യസ്ത മൂല്യങ്ങൾ return ചെയ്യും parent പ്രോസസ്സിൽ fork സിസ്റ്റം കോൾ ചൈൽഡ് പ്രോസസ്സിന്റെ PID return ചെയ്യും ചൈൽഡ് പ്രോസസ്സിൽ fork സിസ്റ്റം കോൾ 0 return ചെയ്യും ഈ കോഡിൽ parent പ്രോസസ്സ് ഇവിടെ if ഭാഗത്ത് പ്രവർത്തിപ്പിക്കും അതേസമയം ഇപ്പോൾ സൃഷ്ടിച്ച ചൈൽഡ് പ്രോസസ്സ് ഇവിടെ else ഭാഗത്ത് എക്സിക്യൂട്ട് ചെയ്യും ഇപ്പോൾ ഫ്ലഷ് റീലോഡ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നത് നമുക്ക് പ്രധാനമാണ് fork സിസ്റ്റം കോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴെല്ലാം parent പ്രോസസിന്റെ പേജ് ഡയറക്ടറിയും പേജ് table കളും OS duplicate ചെയ്യും ഇതുപോലെ ഒന്നായിരിക്കും നമുക്ക് ലഭിക്കുന്നത് നമുക്ക് parent പേജ് ഡയറക്ടറിയും പേജ് table കളും ക്ലോൺ ചെയ്ത ചൈൽഡ് പേജ് ഡയറക്ടറിയും പേജ് പട്ടികയും ഉണ്ടായിരിക്കും parent പ്രോസസ്സിനും ചൈൽഡ് പ്രോസസ്സിനുമുള്ള എല്ലാ വെർച്വൽ വിലാസങ്ങളും സമാനമായ രീതിയിൽ മാപ്പുചെയ്യപ്പെടും ഇതാണ് റാമിലെ ഫിസിക്കൽ മെമ്മറി ഇവിടെ parent പ്രോസസും child പ്രോസസും അതിലെ പേജ് പട്ടികകൾ ഫിസിക്കൽ മെമ്മറിയിലെ ഒരേ region ലേക്ക് മാപ്പ് ചെയ്യും ഫോർക്ക് സിസ്റ്റം കോളുകൾ return ചെയ്യുമ്പോൾ parent പ്രക്രിയയുടെ തനിപ്പകർപ്പായ ചൈൽഡ് പ്രോസസ്സ് അവിടെ ഉണ്ടാവും parent അല്ലെങ്കിൽ child ചില പ്രത്യേക ഡാറ്റ പരിഷ്കരിക്കുന്നതുവരെ റാമിലെ ഈ പേജുകൾ പങ്കിടുന്നത് തുടരും ഇത് സംഭവിക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വീണ്ടും invoke ചെയ്യുകയും ഒരു പുതിയ പേജ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് parent ഉം child ഉം തമ്മിൽ പങ്കിട്ട ഒരു വേരിയബിൾ ഉണ്ടെന്നു കരുതുക child പ്രോസസ്സ് സൃഷ്ടിച്ചതിനുശേഷം ചൈൽഡ് പ്രോസസ്സ് ആ പ്രത്യേക ഡാറ്റ പരിഷ്ക്കരിക്കുന്നു ആ നിർദ്ദേശം നടപ്പിലാക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു fault ഉണ്ടാവുകയും ഫിസിക്കൽ മെമ്മറിയിൽ ആ പരിഷ്കരിച്ച ഡാറ്റയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ പേജ് ചൈൽഡ് പ്രോസസ്സിന് അനുവദിക്കുകയും ചെയ്യും parent ഉം child ഉം തമ്മിൽ വലിയൊരു ഭാഗം share ചെയ്യുന്നതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന നേട്ടം ഉദാഹരണത്തിന് Glibc പോലുള്ള സാധാരണ ലൈബ്രറി നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ അത് printf scanf പോലുള്ള സാധാരണ സി ഫംഗ്ഷനുകൾ സംഭരിക്കുന്നതിന് ഉപയോഗിക്കുന്നു ഈ copy and write കാരണം ആ സിസ്റ്റത്തിലെ ഓരോ പ്രക്രിയയും റാമിൽ നിലവിലുള്ള printf scanf ഫംഗ്ഷനുകളുടെ അതേ പകർപ്പ് ഉപയോഗിക്കും ഓരോ പ്രോസസ്സിനും റാമിൽ സംഭരിച്ചിരിക്കുന്ന printf ന്റെ വ്യത്യസ്ത പതിപ്പ് ഉണ്ടായിരിക്കില്ല റാമിന്റെ വലിയൊരു ഭാഗം സംരക്ഷിക്കപ്പെടുന്നു എന്നതാണ് ഇതിലൂടെ ഉണ്ടാവുന്ന നേട്ടം ഇപ്പോൾ നമ്മൾ പ്രോസസ്സ് ട്രീ എന്താണെന്നു നോക്കാം ഇത് ആധുനിക കാലത്തെ മിക്ക ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്കും വളരെ സാധാരണമായ ഒരു model ആണ് ആദ്യ പ്രോസസ്സ് ഒഴികെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ എല്ലാ പ്രോസസ്സുകളും ഫോർക്ക് സിസ്റ്റം കോൾ ഉപയോഗിച്ചാണ് സൃഷ്ടിക്കുന്നത് എല്ലാ സാധാരണ unix സിസ്റ്റത്തിലെയും ആദ്യ പ്രോസസ്സ്നെ init എന്ന് വിളിക്കുന്നു കൂടാതെ ഈ പ്രോസസ്സ് സൃഷ്ടിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇവിടെ നിന്ന് ഈ process വിവിധ child process കളെ fork ചെയ്യുകയും അങ്ങനെ ഒരു മുഴുവൻ പ്രോസസ്സ് ട്രീ സൃഷ്ടിക്കുകയും ചെയ്യും ഇത് ഒരു പ്രോസസ്സ് ആണെങ്കിൽ ഇതാണ് അതിന്റെ parent ഇതാണ് രണ്ടാമത്തെ പ്രോസസ്സിന്റെ parent തുടങ്ങിയവ അങ്ങനെ പോവുന്നു അങ്ങനെ എല്ലാ processകളും അന്തിമമായി Init ലേക്ക് മടങ്ങുന്നു Copy and write ന്റെ ഫലമായി ലൈബ്രറി കോഡുകൾ ഫിസിക്കൽ മെമ്മറിയിൽ share ചെയ്യുന്നു ഉദാഹരണത്തിന് നമ്മൾക്ക് രണ്ട് പ്രോസസ്സുകളുണ്ടെങ്കിൽ ഈ പർപ്പിൾ പ്രോസസും ഗ്രീൻ പ്രോസസും നമ്മൾ എസ്എസ്എൽ എൻക്രിപ്ഷൻ എന്ന ഒരേ ലൈബ്രറി ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു ഈ സാഹചര്യത്തിൽ ഈ 2 പ്രോസസ്സുകളും വ്യത്യസ്ത വെർച്വൽ മെമ്മറി സ്പെയ്സുകളിലാണെങ്കിലും ഒടുവിൽ അവ ഫിസിക്കൽ മെമ്മറിയിലേക്ക് മാപ്പുചെയ്യപ്പെടും ഒടുവിൽ അവർ റാമിൽ സംഭരിച്ചിരിക്കുന്ന ഈ SSL എൻക്രിപ്ഷന്റെ ഒരേ പകർപ്പ് ഉപയോഗിക്കും നമുക്ക് ഈ 2 പ്രോസസ്സുകളുണ്ട് രണ്ടും SSL എൻക്രിപ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു ഈ 2 പ്രോസസ്സുകളും ഒരേ ലെവൽ കാഷെ മെമ്മറിയോ എൽഎൽസി കാഷെ മെമ്മറിയോ share ചെയ്യുമ്പോൾ എന്തുസംഭവിക്കുമെന്ന് നോക്കാം ഇതിന്റെ architecture ഇതുപോലെയാണ് ഇതിൽ രണ്ട് core കൾ ഉണ്ട് കോർ 1 കോർ 2 പ്രോസസ്സ് 1 കോർ 1 ലും പ്രോസസ് രണ്ട് കോർ 2 ലും എക്സിക്യൂട്ട് ചെയ്യുന്നു ഞങ്ങൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ ഈ രണ്ട് പ്രോസസ്സുകളും ഒരേ എസ്എസ്എൽ എൻക്രിപ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു കൂടാതെ കോർ 1 ഉം കോർ 2ഉം last level കാഷെ പങ്കിടുന്നു കാഷെ മെമ്മറി എങ്ങനെയാണെന്നതിന്റെ ഒരു ചിത്രമാണിത് ഇവിടെ പ്രോസസ്സ് 1 അതായത് ഗ്രീൻ പ്രോസസ്സ് എസ്എസ്എൽ എൻക്രിപ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത എണ്ണം കാഷെ മിസ്സുകൾ ഉണ്ടാകാം അതിന്റെ ഫലമായി ഈ എസ്എസ്എൽ എൻക്രിപ്ഷനുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുടെയും ഡാറ്റയുടെയും ഒരു ഭാഗം കാഷെ മെമ്മറിയിലേക്ക് ലോഡുചെയ്യപ്പെടും ആദ്യ execution ൽ ധാരാളം കാഷെ മിസ്സുകൾ ഉണ്ടാവും കൂടാതെ കാഷെയിൽ SSL എൻക്രിപ്ഷന്റെ ചില വശങ്ങൾ അടങ്ങിയിരിക്കും പ്രോസസ്സ് 1 ന് സമാനമായ ആദ്യ എക്സിക്യൂഷൻ വളരെയധികം കാഷെ മിസ്സുകൾ കാരണം വളരെ മന്ദഗതിയിലാകും രണ്ടാമത്തെ പ്രക്രിയ അതേ പ്രവർത്തനം നടത്തുമ്പോൾ എന്തുസംഭവിക്കുമെന്ന് ഇപ്പോൾ നോക്കാം ഈ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രോസസ്സ് 1 പ്രകാരമുള്ള മുൻ എക്സിക്യൂഷൻ കാരണം ഡാറ്റയും നിർദ്ദേശങ്ങളും അവസാന ലെവൽ കാഷെയിൽ ഉള്ളതിനാൽ രണ്ടാമത്തെ പ്രോസസ്സിനു എസ്എസ്എൽ എൻക്രിപ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ധാരാളം കാഷെ ഹിറ്റുകൾ ലഭിക്കും ഫംഗ്ഷൻ സമാനമാണെങ്കിലും രണ്ടാമത്തെ പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ സമയം ആദ്യ പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ സമയത്തേക്കാൾ വളരെ വേഗത്തിലാകും ഒരു പ്രോസസ്സ് മറ്റൊരു പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ സമയത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമ്മൾ കണ്ടു ഇപ്പോൾ ഒരു പ്രോസസ്സിനു മറ്റൊരു പ്രോസസ്സിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ എങ്ങനെ ചോർത്താമെന്ന് കുറച്ചുകൂടി വിശദമായി നമ്മൾ നോക്കും ഇപ്പോൾ നമുക്ക് എസ്എസ്എൽ എൻക്രിപ്ഷൻ ഉണ്ട് ആ എസ്എസ്എൽ എൻക്രിപ്ഷനിൽ ഒരു ഫംഗ്ഷൻ ഇതുപോലെ ആണെന്നു കരുതുക ഈ ഫംഗ്ഷനെ exponent എന്ന് വിളിക്കുന്നു ഇതിന് b e m എന്നീ 3 values ആവശ്യമാണ് RSA എൻക്രിപ്ഷൻ പോലുള്ള public key സൈഫറുകളിൽ ഉപയോഗിക്കുന്ന വളരെ സാധാരണമായ ഫങ്ക്ഷൻ ആണിത് RSA എൻക്രിപ്ഷൻ പോലുള്ള ഒരു സാധാരണ എൻക്രിപ്ഷനിൽ ഈ രണ്ടാമത്തെ e ആർഗ്യുമെന്റ് രഹസ്യമാണ് അത് വളരെ ഉയർന്ന തലത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് നാം ഈ invocation ലേക്ക് നോക്കിയാൽ e value ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കാണാം അടിസ്ഥാനപരമായി ei ബിറ്റ് e യിലെ ith ബിറ്റിനെ സൂചിപ്പിക്കും ഈ പ്രത്യേക ഫംഗ്ഷനിൽ എന്തുചെയ്യുന്നു എന്നാൽ e ലെ most significant ബിറ്റിൽ നിന്ന് 0 ലേക്ക് ഒരു ലൂപ്പ് ഉണ്ട് ലൂപ്പിന്റെ ഓരോ ആവർത്തനത്തിലും e ലെ ith ബിറ്റ് 1 അല്ലെങ്കിൽ 0 ആണോ എന്ന് നിർണ്ണയിക്കാൻ ഒരു കണ്ടീഷൻ പരിശോധനയുണ്ട് Ith ബിറ്റ് 1 ആണെങ്കിൽ ഗുണനവും മോഡുലാർ റിഡക്ഷനും ചെയ്യുന്നു ith bit 0 ആണെങ്കിൽ ഈ 2 ഘട്ടങ്ങൾ step 8 ലും 9 ലും ഒഴിവാക്കി ഒരു ബിറ്റ് information എക്സ്ട്രാക്റ്റുചെയ്യുന്നതിന് last ലെവൽ കാഷെ share ചെയ്യുന്ന മറ്റൊരു പ്രോസസ് എങ്ങനെയാണ് ഫ്ലഷ് പ്ലസ് റീലോഡ് ആക്രമണം ഉപയോഗിക്കുന്നതെന്ന് ഇപ്പോൾ നമ്മൾ കാണും അതിനാൽ ഞങ്ങൾക്ക് CLFLUSH എന്നറിയപ്പെടുന്ന X86 support ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആവശ്യമാണ് ഈ CLFLUSH നിർദ്ദേശം ഒരു address input ആയി എടുക്കുകയും ആ സിസ്റ്റത്തിൽ നിലവിലുള്ള എല്ലാ കാഷെകളിൽ നിന്നും ആ പ്രത്യേക വിലാസം ഫ്ലഷ് ചെയ്യുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് നിങ്ങൾ CLFLUSH എക്സിക്യൂട്ട് ചെയ്യുകയും line 8 ന്റെ വിലാസം നൽകുകയും ചെയ്യുന്നു ഈ കോഡിലെ എട്ടാമത്തെ വരിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റയും സിസ്റ്റത്തിലുള്ള എല്ലാ കാഷെകളിൽ നിന്നും flush ആകും എന്നത് ഉറപ്പാണ് ഫ്ലഷ് റീലോഡ് ആക്രമണം ഇനിപ്പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു അടിസ്ഥാനപരമായി ആക്രമണകാരിക്ക് 2 ഘട്ടങ്ങളുണ്ട് ഒരു ഫ്ലഷ് ഘട്ടമുണ്ട് തുടർന്ന് reload ഘട്ടമുണ്ട് ഫ്ലഷ് ഘട്ടത്തിൽ ആക്രമണകാരി ഇതുപോലുള്ള ഒരു line എക്സിക്യൂട്ട് ചെയ്യുന്നു ഫ്ലഷ് ഘട്ടത്തിൽ ആക്രമണകാരി ഇതുപോലുള്ള ഒരു നിർദ്ദേശം നടപ്പിലാക്കുകയും കാഷെ മെമ്മറികളിൽ നിന്ന് 8 ാം വരിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഫ്ലഷ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു reload ഘട്ടത്തിൽ ആക്രമണകാരി എട്ടാമത്തെ വരിയിലുള്ള നിർദ്ദേശങ്ങളിലേക്ക് പ്രവേശിക്കും അതിനാൽ ഈ നിർദ്ദേശങ്ങൾ കാഷെ മെമ്മറിയിലേക്ക് വീണ്ടും ലോഡുചെയ്യപ്പെടും അതായത് ആക്രമണകാരി 2 മോഡുകൾക്കിടയിൽ നിരന്തരം ടോഗിൾ ചെയ്യുന്നു CLFLUSH മോഡ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയും ഡാറ്റ കാഷെയിൽ നിന്ന് നീക്കുകയും ചെയ്യുന്ന ഫ്ലഷ് മോഡ് തുടർന്ന് കുറച്ച് സമയത്തേക്ക് wait ചെയ്യണം തുടർന്ന് ഒരു റീലോഡ് മോഡ് ഉണ്ട് അവിടെ അടുത്തിടെ ഫ്ലഷ് ഡാറ്റ ആക്സസ് ചെയ്തതിനാൽ അത് കാഷെയിലേക്ക് വീണ്ടും ലോഡുചെയ്യുന്നു കാഷെയിലേക്ക് ഡാറ്റ വീണ്ടും ലോഡുചെയ്യുന്ന രണ്ടാമത്തെ ഘട്ടത്തിൽ ആ നിർദ്ദിഷ്ട നിർദ്ദേശം നടപ്പിലാക്കാൻ എടുത്ത സമയവും ആക്രമണകാരി കണക്കാക്കുന്നു അതിനാൽ ഒരു കാഷെ മിസ് ഉണ്ടെങ്കിൽ എക്സിക്യൂഷൻ സമയം ഉയർന്നതായിരിക്കും മറുവശത്ത് ഒരു കാഷെ ഹിറ്റ് സംഭവിക്കുകയാണെങ്കിൽ reload ഘട്ടത്തിൽ എക്സിക്യൂഷൻ സമയം വളരെ കുറവായിരിക്കും അതിനാൽ ആക്രമണകാരി ഫ്ലഷ് റീലോഡ് എന്നിവയുടെ ഈ 2 ഘട്ടങ്ങൾക്കിടയിൽ ടോഗിൾ ചെയ്യുന്നത് തുടർന്നാൽ സമയം പുരോഗമിക്കുമ്പോൾ എന്തുസംഭവിക്കുമെന്ന് നോക്കാം ഇവിടെയുള്ള ചുവന്ന ഭാഗം reload ഘട്ടം കാണിക്കുന്നു ഇവിടെ നീല ഭാഗം ഫ്ലഷ് സ്റ്റെപ്പിനുള്ള സമയം കാണിക്കുന്നു ഉദാഹരണത്തിന് ഒരു ഫ്ലഷ് സംഭവിച്ചു ഒപ്പം കാഷെയിൽ നിന്ന് എട്ടാമത്തെ വരിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഫ്ലഷ് ചെയ്യാൻ ആക്രമണകാരി CLFLUSH ഉപയോഗിച്ചു തുടർന്ന് കുറച്ച് സമയം കാത്തിരിക്കുകയും reload ഘട്ടം പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്നു 8 ാം വരിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കാഷെയിൽ നിന്ന് ഫ്ലഷ് ചെയ്തതിനാൽ പ്രതീക്ഷിക്കുന്നതുപോലെ ഒരു കാഷെ മിസ് ലഭിക്കുകയും reload നുള്ള എക്സിക്യൂഷൻ സമയം വളരെ വലുതായിരിക്കുകയും ചെയ്യും ഫ്ലഷ് റീലോഡ് ഘട്ടങ്ങളിലൊന്നിൽ ഒരു victim കൂടി execute ചെയ്യപ്പെടുന്നുണ്ട് e1 1 ആയി സജ്ജമാക്കിയ ചെയ്യുകയും ശേഷം victim ഈ ലൂപ്പ് execute ചെയ്യുകയും അത് വരി 8 ഉം 9 ഉം execute ചെയ്യുന്നു തൽഫലമായി അത് കാഷെ മിസ്സിന് കാരണമാവുകയും വരികൾ 8 ഉം 9 ഉം കാഷെ മെമ്മറിയിലേക്ക് ലോഡുചെയ്യുകയും ചെയ്യും ഇപ്പോൾ attacker reload ചെയ്യുന്ന ഘട്ടം പരിഗണിക്കുക കാരണം കാഷിൽ എട്ടാമത്തെ വരിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഉള്ളതിനാൽ reload ഘട്ടത്തിൽ attacker കാഷെ ഹിറ്റുകൾക്ക് സാക്ഷ്യം വഹിക്കും അതിനാൽ ഈ പ്രത്യേക റീലോഡ് ഘട്ടത്തിലെ execution സമയം ഗണ്യമായി കുറവായിരിക്കും അതിനാൽ പ്രോസസ്സ് 1 ലെ എട്ടാമത്തെ വരിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് attacker നു അനുമാനിക്കാൻ കഴിയും അതിന്റെ ഫലമായി e1 ബിറ്റ് 1 ആണെന്ന് അയാൾക്ക് അനുമാനിക്കാം ചുവടെയുള്ള ഈ 3 ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്ന മറ്റ് നിരവധി സാധ്യതകളുണ്ട് ഉദാഹരണത്തിന് ആക്രമണകാരിയുടെ റീലോഡ് ഘട്ടം സംഭവിക്കുന്നതിനോ അല്ലെങ്കിൽ അല്പം മുമ്പോ ഉള്ള സമയത്ത് eviction സംഭവിക്കാം അല്ലെങ്കിൽ reload ഘട്ടം നടപ്പാക്കുന്നതിന് മുമ്പ് victim ന്റെ ഒന്നിലധികം ആക്സസ്സുകളും ഉണ്ടാകാം റീലോഡിന്റെ എക്സിക്യൂഷൻ സമയം നിരീക്ഷിക്കുന്നതിലൂടെ victim process ലൂടെ ചില നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ ആക്രമണകാരിക്ക് കഴിയുമെന്നതാണ് ഈ പ്രത്യേക സ്ലൈഡിൽ നിന്ന് നമ്മൾ മനസിലാക്കേണ്ടത് ഈ പ്രത്യേക വിവരങ്ങളിൽ നിന്ന് attacker നു ആ victim process നെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ അനുമാനിക്കാൻ കഴിയും ഈ ഉദാഹരണത്തിൽ ഈ നിർദ്ദേശങ്ങൾ execute ചെയ്തിട്ടുണ്ടെങ്കിൽ attacker കീയുടെ ei ബിറ്റ് 1 ആണെന്നു അനുമാനിക്കും ഈ നിർദ്ദേശങ്ങൾ execute ചെയ്തിട്ടില്ലെങ്കിൽ attacker കീയുടെ ei ബിറ്റ് 0 ആണെന്നു അനുമാനിക്കും victim എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന reload സമയം ഈ സ്ലൈഡ് കാണിക്കുന്നു ഇവിടെ കാണുന്നപോലെ ഒരു കാഷെ ഹിറ്റ് ഉണ്ടാകുമ്പോഴും ഒരു കാഷെ മിസ് ഉണ്ടാകുമ്പോഴും കാര്യമായ വ്യത്യാസമുണ്ടെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും victim പ്രോസസ്സ് യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയ നിർദ്ദേശങ്ങൾ ഇതിൽ നിന്ന് attacker നു അനുമാനിക്കാൻ കഴിയും ഈ ഫ്ലഷ് റീലോഡ് ആക്രമണത്തെ നമ്മൾ എങ്ങനെ നേരിടും അത്തരമൊരു ആക്രമണം യഥാർത്ഥത്തിൽ തടയുന്നതിനുള്ള ഏറ്റവും വ്യക്തമായ മാർഗം മിക്ക ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും നടപ്പിലാക്കുന്നതുപോലെ കോപ്പി റൈറ്റ് തത്വം ഉപയോഗിക്കരുത് എന്നതാണ് എന്നിരുന്നാലും ഇത് അത്ര അത്ര പ്രായോഗികമല്ല കാരണം സിസ്റ്റത്തിൽ നിലവിലുള്ള നിശ്ചിത അളവിലുള്ള RAM ഉപയോഗപ്പെടുത്തുന്നതിനുള്ള വളരെ കാര്യക്ഷമമായ മാർഗ്ഗമാണ് copy and write സുരക്ഷാ തകരാറുകൾ ഉണ്ടെങ്കിലും ഇപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നതിന് വളരെ ഇഷ്ടപ്പെട്ട മാർഗമാണിത് വളരെ അടുത്തിടെ ക്ലൌഡ് ദാതാക്കൾ ഒരു വെർച്വൽ മെഷീനിൽ നിന്ന് മറ്റൊരു വെർച്വൽ മെഷീനിലേക്ക് copy റൈറ്റു ചെയ്യുന്നത് തടഞ്ഞു ഈ പ്രത്യേക ആക്രമണത്തെ തടയുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം CLFLUSH എന്ന നിർദ്ദേശം പുനർരൂപകൽപ്പന ചെയ്ത് ഒരു പ്രത്യേകാവകാശ നിർദ്ദേശമാക്കുക എന്നതാണ് ഒരു സാധാരണ ആപ്ലിക്കേഷൻ CLFLUSH പോലുള്ള ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നില്ല അത്തരമൊരു നിർദ്ദേശം സാധാരണയായി മെമ്മറി സ്ഥിരത കൈവരിക്കുന്നതിന് ഉപയോഗിക്കുന്നു മാത്രമല്ല ഇത് സാധാരണയായി പല ആപ്ലിക്കേഷനുകൾക്കും ആവശ്യമില്ല ഉദാഹരണത്തിന് സാധ്യമായ ഒരു പ്രതിവാദം CLFLUSH നെ ഒരു പ്രത്യേകാവകാശ നിർദ്ദേശമാക്കി മാറ്റുക എന്നതാണ് മാത്രമല്ല സൂപ്പർ ഉപയോക്താക്കൾക്കോ റൂട്ട് ഉപയോക്താക്കൾക്കോ മാത്രമേ CLFLUSH അഭ്യർത്ഥിക്കാൻ കഴിയൂ ഒരു സിസ്റ്റം കോളിലൂടെ മാത്രം CLFLUSH ആക്സസ് ചെയ്യുക എന്നതാണ് മറ്റൊരു പോംവഴി non inclusive കാഷെ മെമ്മറികൾ സൃഷ്ടിക്കുക എന്നതാണ് മൂന്നാമത്തെ പോംവഴി ഇത് ഇപ്പോൾ ഇന്റൽ അംഗീകരിച്ചു തുടർന്ന് AMDയും നമ്മൾ ഇനി ഇതിലേക്ക് കൂടുതൽ പോകുന്നില്ല അതിനാൽ ആധുനിക ഇന്റൽ മെഷീനിൽ പ്രത്യേകിച്ചും ഇന്റൽ I9 മുതലായവയിൽ non inclusive cache ഉണ്ട് അത് flush and reload attck നെ തടയുന്നു സിസ്റ്റത്തിൽ നിലവിലുള്ള ക്ലോക്കുകളെ fuzzing ചെയ്യുന്നതാണ് മറ്റ് പരിഹാരങ്ങൾ അതായത് അത്തരം സ്കീമുകളിൽ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ക്ലോക്ക് RDTSC ടൈംസ്റ്റാമ്പ് കൌണ്ടറാണ് ആക്രമണകാരിക്ക് കൃത്യമായ സമയം കണ്ടെത്താൻ കഴിയാത്തവിധം ക്ലോക്ക് fuzzing ചെയ്യുക എന്നതാണ് മറ്റൊരു പരിഹാരം മറ്റൊരു മാർഗം സോഫ്റ്റ്വെയർ diversification ആണ് അവിടെ നിങ്ങൾ മെമ്മറിയിലുള്ള ഒബ്ജക്റ്റുകളുടെ സ്ഥാനങ്ങൾ ക്രമീകരിക്കുന്നു അതിനാൽ നിരീക്ഷണത്തിലൂടെയോ ഹിറ്റുകളും മിസ്സുകളും നേടുന്നതിലൂടെയോ ആ സ്ഥലത്ത് യഥാർത്ഥത്തിൽ ഏത് നിർദ്ദേശം ആണ് നടപ്പിലാക്കുന്നതെന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ ആക്രമണകാരിക്ക് കഴിയില്ല നന്ദി